നമുക്ക് ഇപ്പോൾ മറ്റൊരു ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ റിക്കവറി സ്കീമിലേക്ക് പോകാം നേരത്തേ കണ്ട ഡിഫർഡ് മോഡിഫിക്കേഷനു വിപരീതമായി ഇതിനെ ഇമ്മീഡിയറ്റ് ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു ഇത് അൺകമ്മിറ്റഡ് റൈറ്റുകൾ അനുവദിക്കുന്നു മുമ്പ് എല്ലാ എഴുത്തുകളും കമ്മിറ്റഡായിരുന്നു ഇത് അൺകമ്മിറ്റഡായ എഴുത്തുകൾ അനുവദിക്കുന്നു അതായത് ട്രാൻസാക്ഷൻ നടന്നിട്ടില്ലെങ്കിൽ പോലും അതിന്റെ എഴുത്ത് ഡാറ്റാബേസിലേക്ക് പോകാം റൈറ്റ് റെക്കോർഡ് പഴയ മൂല്യവും പുതിയ മൂല്യവും വായിക്കുന്നു രണ്ടും ആവശ്യമാണ് അല്ലാത്തപക്ഷം ഇത് തെറ്റാണ് യഥാർത്ഥ പ്രവർത്തനത്തിന് മുമ്പ് ലോഗ് എഴുതിയിട്ടുണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർക്കുക ഇത് വളരെ പ്രധാനമാണ് എന്തുകൊണ്ടാണ് ഇത് പ്രധാനമെന്ന് നമ്മൾ കാണും ആദ്യം ലോഗ് എഴുതി തുടർന്ന് റൈറ്റ് ഓപ്പറേഷൻ ആവശ്യമെങ്കിൽ ഡാറ്റാബേസിൽ ചെയ്തു ഒരേ കാര്യം പോലെ ഒരു ട്രാൻസാക്ഷൻ തകരാറിലാകുമ്പോൾ വീണ്ടും ലോഗ് തിരയുന്നു കമ്മിറ്റ് ടി എല്ലാ രേഖകളും കമ്മിറ്റ് ടി ഉള്ള എല്ലാ ട്രാൻസാക്ഷനുകൾ തിരഞ്ഞു ഈ രണ്ട് കേസുകളും കണ്ടെത്തിയാൽ ഈ കമ്മിറ്റ് ടി റെക്കോർഡ് തിരയുന്നു അത് കണ്ടെത്തിയില്ലെങ്കിൽ ട്രാൻസാക്ഷൻ ആരംഭിച്ചു അതായത് എവിടെയെങ്കിലും ചിലത് സ്റ്റാർട്ട് ടി ഉണ്ട് ട്രാൻസാക്ഷൻ ആരംഭിച്ചു പക്ഷേ അത് ചെയ്തിട്ടില്ല സംഭവിക്കാനിടയുള്ളത് ഇടയ്ക്ക് ഡാറ്റാബേസിലേക്ക് പോയ ചില എഴുത്തുകൾ ഉണ്ടായിരിക്കാം എന്നാൽ ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല അതിനാൽ ഇതിൽ ചില എററുകൾ ഉണ്ടായേക്കാം ട്രാൻസാക്ഷൻ എന്തുചെയ്യും അത് പഴയപടിയാക്കും ഇത് പരാജയപ്പെട്ട ട്രാൻസാക്ഷനാണ് പക്ഷേ ഇത് ശരിയായിരിക്കുമെന്ന് കരുതി ഡാറ്റാബേസിൽ ഇതിനകം ചില മൂല്യങ്ങൾ എഴുതിയിരിക്കാം പക്ഷേ ഇപ്പോൾ അത് ശരിയല്ല അതിനാൽ അത് പഴയപടിയാക്കണം ആ ബാങ്കിംഗ് ഉദാഹരണം നമ്മൾ കാണുകയാണെങ്കിൽ ഒരു പരാജയപ്പെട്ട ട്രാൻസാക്ഷൻ എയുടെ പണം ഡെബിറ്റ് ചെയ്തതായിരിക്കാം പക്ഷേ ബി ക്രെഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് പരാജയപ്പെട്ടു അതായത് കമ്മിറ്റ് ടി കാണുന്നില്ല എയുടെ അക്കൌണ്ടിൽ നിന്നുള്ള ഡെബിറ്റ് പ്രവർത്തനം പഴയപടിയാക്കണം അതിനർത്ഥം A ന്റെ മുൻ മൂല്യത്തിലേക്ക് പുനസ്ഥാപിക്കണം അൺണ്ടു ചെയ്യാൻ നിങ്ങൾ പഴയ മൂല്യങ്ങൾ വായിക്കുകയും ഇത് പഴയപടിയാക്കുകയും ചെയ്തു മറുവശത്ത് കമ്മിറ്റ് ടി റെക്കോർഡ് കണ്ടെത്തിയാൽ അതിൽ എല്ലാ എഴുത്തുകളും യഥാർത്ഥത്തിൽ ഡാറ്റാബേസിലേക്ക് കടന്നേക്കില്ല ഇതിനർത്ഥം ഡാറ്റാബേസിലേക്കുള്ള യാത്രയാണ് അവയെല്ലാം യഥാർത്ഥത്തിൽ ഡാറ്റാബേസിലേക്ക് പോയിരിക്കില്ല അതിനാൽ ഇത് വീണ്ടും ചെയ്യേണ്ടതുണ്ട് എല്ലാ ട്രാൻസാക്ഷനുകളും വീണ്ടും ചെയ്യേണ്ടതുണ്ട് മുമ്പത്തെ സ്കീമിന് സമാനമാണ് ട്രാൻസാക്ഷൻ നടത്തിയതെന്ന് പറയപ്പെടുന്നു അതിനർത്ഥം ഇത് എല്ലാ പ്രവർത്തനങ്ങളും വിജയകരമായി പൂർത്തിയാക്കി എന്നാണ് എന്നാൽ ഈ പ്രവർത്തനങ്ങളെല്ലാം ഡാറ്റാബേസിലേക്ക് പോകണമെന്നില്ല ഡാറ്റാബേസ് മൂല്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകില്ല ഒരു ഉറപ്പുമില്ല അത് പുതുക്കിയിരിക്കുന്നു അത് കമ്മിറ്റ് ടി മാത്രമാണ് ലോഗിൽ എഴുതുന്നത് അതാണ് ലോഗ് പരിശോധിക്കുന്നത് അത് വീണ്ടും ചെയ്യേണ്ടതുണ്ട് ട്രാൻസാക്ഷൻ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് ഉറപ്പുവരുത്താൻ മാത്രമാണ് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ ഡാറ്റാബേസിൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് പഴയപടിയാക്കലും വീണ്ടും ചെയ്യലും ആവശ്യമായി വരുന്നത് അതുകൊണ്ടാണ് ഈ സ്കീമിനെ ചിലപ്പോൾ അൺണ്ടു റീഡു പദ്ധതി എന്നും വിളിക്കുന്നത് കാരണം അൺണ്ടു റീഡു ആവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടും ഉത്തമമായ പ്രവർത്തനങ്ങളാണ് കാരണം ഒന്നിലധികം ക്രാഷുകൾ മുതലായവ ഉണ്ടാകാം അൺണ്ടു റീഡു ചെയ്യലും വീണ്ടും ചെയ്യേണ്ടതായി വന്നേക്കാം ഇതൊരു ഐടെംപൊട്ടൻറ് പ്രവർത്തനമായിരിക്കണം ഏറ്റവും പ്രധാനമായി ഈ അൺഡൂയിംഗ് റീഡൂയിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് ആ ക്രമത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ലോഗിന്റെ വിപരീത ക്രമത്തിൽ പൂർവ്വാവസ്ഥയിലാക്കണം ലോഗിന്റെ ഫോർവേഡ് ഓർഡറിലാണ് വീണ്ടും ചെയ്യുന്നത് അൺഡൂയിംഗ് ലോഗ് റെക്കോർഡുകളുടെ വിപരീത ക്രമത്തിലാണ് ഇത് അവബോധജന്യവും മനസ്സിലാക്കാൻ എളുപ്പവുമാണ് അതേസമയം റീഡൂയിംഗ് ലോഗ് റെക്കോർഡുകളുടെ ഫോർവേഡ് ഓർഡറിൽ ആണ് അപ്പോഴും ഒരു സുപ്രധാന ചോദ്യം കൂടി വരുന്നു ട്രാൻസാക്ഷനുകൾ ഉണ്ടെന്ന് കരുതുക ഒരു ട്രാൻസാക്ഷൻ പഴയപടിയാക്കേണ്ടതും മറ്റ് ആവശ്യങ്ങൾ വീണ്ടും ചെയ്യേണ്ടതുമാണ് ഏതാണ് നേരത്തെ ചെയ്യേണ്ടത് ആദ്യം അൺണ്ടു എന്നിട്ട് റീഡു ചെയ്യണോ അതോ ആദ്യം റീഡു ചെയ്തിട്ട് അൺണ്ടു ചെയ്യണോ ഉത്തരം റീഡൂയിംഗ് ചെയ്യുന്നതിന് മുമ്പ് അൺഡൂയിംഗ് ചെയ്യണം ആദ്യം ഒരു പരാജയപ്പെട്ട ട്രാൻസാക്ഷൻ ചെയ്തതെല്ലാം അൺണ്ടു ചെയ്യണം തുടർന്ന് ശരിയായി പൂർത്തിയാക്കിയ ട്രാൻസാക്ഷൻ റീഡു ചെയ്യണം കാരണം ഒരു ഡാറ്റ x പരിഗണിക്കുക ഇപ്പോൾ ട്രാൻസാക്ഷൻ T0 ഉം x ഉം പരാജയപ്പെട്ടുവെന്ന് കരുതുക x1 ലെ T1 ട്രാൻസാക്ഷൻ കടന്നുപോയി അതായത് x ന്റെ എഴുത്ത് മൂല്യം T1 എഴുതിയത് പോലെ പ്രതിഫലിക്കണം ടി 1 ന്റെ പുനർനിർമ്മാണം ആദ്യം ചെയ്യുകയാണെങ്കിൽ T0 പൂർവ്വാവസ്ഥയിലാക്കുകയാണെങ്കിൽ T0 T1 എഴുതിയതിന് മൂല്യം തിരികെ നൽകാം T1 എഴുതിയത് പോലെ അത് ശരിയായ കാര്യമല്ല ആദ്യം T0 മൂല്യം പഴയപടിയാക്കണം അത് x ന് എഴുതിയതെന്തും തുടർന്ന് T1 അത് വീണ്ടും ചെയ്യുന്നു അത് കാരണം T1 ശരിയാണ് ശരിയായി പൂർത്തിയാക്കി T1 ചെയ്തതിനുശേഷം മൂല്യം ഇപ്പോൾ ഡാറ്റാബേസിൽ പ്രതിഫലിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് റീഡു ചെയ്യുന്നതിന് മുമ്പ് അൺണ്ടു ചെയ്യണം ഇത് പൂർണ്ണമായും മനസ്സിലാക്കാൻ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ഇതാണ് ഉദാഹരണം സ്റ്റാർട്ട് T0 ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ ഉദാഹരണമാണ് എന്നാൽ ഒരു പ്രധാന വ്യത്യാസം പഴയ മൂല്യങ്ങൾ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് 3 എന്നത് പഴയ മൂല്യമാണ് കഴിഞ്ഞ തവണ നമുക്ക് പഴയ മൂല്യം ആവശ്യമില്ല അത് അവിടെ ഉണ്ടായിരുന്നില്ല ഒരു പ്രധാന കാര്യം ഇവിടെ അബോർട്ട് സ്റ്റേറ്റ് മെൻറ് ആവശ്യമാണ് കാരണം ട്രാൻസാക്ഷൻ പരാജയപ്പെട്ടു അത് അബോർട്ട് സ്റ്റേറ്റ് മെൻറ് എഴുതും എന്തായാലും ഈ ഉദാഹരണത്തിലേക്ക് തിരികെ വരുന്നു T0 T1 എന്നീ രണ്ട് ട്രാൻസാക്ഷനുകൾ ഉണ്ട് T0 A യുടെ മൂല്യം എഴുതിയിട്ടുണ്ട് അത് 3 ൽ നിന്ന് 9 ആയി മാറ്റുക T1 B 2 ൽ നിന്ന് 5 ആയി മാറ്റുക തുടർന്ന് T1 A യുടെ മൂല്യം 9 ൽ നിന്ന് 7 ലേക്ക് മാറ്റുന്നു ഇപ്പോൾ ക്രാഷ് സംഭവിക്കുന്നുവെന്ന് കരുതുക റൈററ് T0 A 3 9 സ്റ്റേറ്റ് മെൻറ് ലോഗ് തിരയുകയാണ് T0 ട്രാൻസാക്ഷൻ ആരംഭിച്ചതായി കണ്ടെത്തി പക്ഷേ അത് ചെയ്തിട്ടില്ല T0 പഴയപടിയാക്കുക കാരണം T0 ആരംഭിച്ചു പക്ഷേ കമ്മിറ്റഡല്ല T0 ഇതിനകം A ലേക്ക് 9 എന്ന ഈ മൂല്യം എഴുതിയിരിക്കാം അത് തെറ്റാണ് കാരണം ഈ T0 തെറ്റാണ് അത് 3 എന്ന മൂല്യത്തിലേക്ക് തിരികെ പോണം മൂല്യം ഇപ്പോൾ 3 ആയി സജ്ജമാക്കിയിരിക്കുന്നു ഇപ്പോൾ B സ്റ്റേറ്റ്മെൻറിനുo റൈററ് T1 B 2 5 സ്റ്റേറ്റ്മെൻറിനുo ശേഷം മാത്രം ഒരു ക്രാഷ് ഉണ്ടെന്ന് കരുതുക ഈ ലോഗ് തിരയുന്നു T1 ആരംഭിച്ചു പക്ഷേ പൂർത്തിയായിട്ടില്ല T1 അൺണ്ടു ചെയ്തു T0 റീഡു ചെയ്യുകയും പൂർത്തിയാക്കുകയും ചെയ്തു അതിനാൽ T0 റീഡു ചെയ്യേണ്ടതുണ്ട് ആദ്യം ഓർഡർ T1 ന്റെ അൺണ്ടു ചെയ്യണം തുടർന്ന് T0 വീണ്ടും ചെയ്യുക ടി 1 അൺണ്ടു ചെയ്യുന്നത് ടി 0 വീണ്ടും ചെയ്യുന്നതിനേക്കാൾ നേരത്തെ ചെയ്യും T1 ന്റെ ഈ അൺണ്ടു B യുടെ മൂല്യം 2 ലേക്കും T0 ന്റെ പുനർനിർമ്മാണം A യുടെ മൂല്യം 9 ആയി പുന സ്ഥാപിക്കും കാരണം ഇത് ശരിയായ പുതിയ മൂല്യമാണ് അത് റീഡു ചെയ്യേണ്ടതുണ്ട് അവസാനമായി കമ്മിറ്റ് T1 സ്റ്റേറ്റ്മെൻറിനു ശേഷം ഒരു ക്രാഷ് ഉണ്ടെന്ന് കരുതുക വീണ്ടും എല്ലാം തിരഞ്ഞു തുടർന്ന് T1 T0 എന്നിവ റീഡു ചെയ്യേണ്ടതുണ്ട് റീഡു ചെയ്ത പ്രവർത്തനം അവർ ചെയ്ത ക്രമത്തിൽ ചെയ്യണം T0 റീഡു ചെയ്യുക തുടർന്ന് T1 റീഡു ചെയ്യുക കാരണം അല്ലാത്തപക്ഷം എ യുടെ മൂല്യം തെറ്റായി കാണും ഇത് ചെയ്തുകഴിഞ്ഞാൽ B ന് പുതിയ മൂല്യം എഴുതിയിട്ടുണ്ട് A ന് പുതിയ മൂല്യം ഉണ്ട് അത് 7 ആണ് ഇത് ക്രമത്തിൽ ചെയ്തില്ലെങ്കിൽ A തെറ്റായിരിക്കും ഇത് മുമ്പത്തെ സ്കീം പോലെയാണ് ഈ രണ്ട് റിക്കവറി മാനേജുമെന്റ് സിസ്റ്റങ്ങളുടെ പോയിന്റ് ഇതാണ് ഡിഫർഡ് ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ പദ്ധതിയും ഇമ്മീഡിയറ്റ് ഡാറ്റാബേസ് മോഡിഫിക്കേഷനും ഡിഫർഡ് അർത്ഥം ചുരുക്കിപ്പറഞ്ഞാൽ എഴുതുന്നതും അത് ഉടനടി അർത്ഥമാക്കുന്നതുവരെ മാറ്റിവയ്ക്കുന്നു ലോഗിൽ എഴുതിയതിനുശേഷം ഉടൻ എഴുതാം പക്ഷേ ലോഗ് റെക്കോർഡ് ആദ്യം എഴുതണം